നമ്മുടെ പ്രോഗ്രാമുകളിലെ കാര്യങ്ങൾ പിശകോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നാമെന്ത് ചെയ്യുമെന്ന് പരിശോധിക്കാം ഇപ്പോൾ പല വ്യത്യസ്ത തരം കാര്യങ്ങൾ പിശകുകൾക്ക് കാരണമാവാറുണ്ട് ഉദാഹരണത്തിന് x ഹരിക്കണം z എന്ന ഒരു എക്സപ്രഷൻ നമുക്കുണ്ടെന്ന് കരുതുക മാത്രമല്ല ഇവിടെ z ന്റെ വില 0 ആണെന്ന് കരുതുക അതുകൊണ്ട് ഈ എക്സപ്രഷന്റെ വില കണക്കുകൂട്ടി കണ്ടുപിടിക്കുവാൻ സാധിക്കില്ല അല്ലെങ്കിൽ സാധുവല്ലാത്ത ഒരു പൂർണ്ണസംഖ്യയെ പ്രതിനിധാനം ചെയ്യുന്ന s എന്ന സ്ട്രിങ്ങിനെ ഒരു പൂർണ്ണസംഖ്യയി പരിവർത്തനം ചെയ്യുവാനായി നാം ശ്രമിക്കേണ്ടി വരും വില നിർവ്വചിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പേര് അല്ലെങ്കിൽ ഒരു ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു സ്ഥാനത്തുള്ള ഇൻഡക്സിനെ ഉപയോഗിച്ച് നമുക്ക് ഒരു എക്സ്പ്രഷൻ കണക്കുകൂട്ടാൻ കൂടി ശ്രമിച്ചു നോക്കാം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എങ്ങിനെയാണ് ഡിസ്കിലെ ഫയലുകളിൽ നിന്ന് വായിക്കുകയും അവയിലേക്ക് എഴുതുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കുകയാണ് അതായത് നിലവിലില്ലാത്ത ഒരു ഫയൽ വായിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയോ സംഭരണശേഷി പൂർണ്ണമായ ഒരു ഡിസ്കിലേക്ക് എഴുതുവാനായി നമ്മൾ ശ്രമിക്കുകയോ ചെയ്യുകയാണ് അതുകൊണ്ട് നമ്മുടെ പ്രാഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴുണ്ടാവാൻ സാധ്യതയുള്ള ധാരാളം സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് ഇതിൽ ചില പിശകുകളെ നമുക്ക് മുൻകൂട്ടി കാണുവാൻ സാധിക്കും എന്നാൽ മറ്റുചിലത് അപ്രതീക്ഷിതമായിരിക്കും നമുക്ക് ഒരു പിശകിനെ മുൻകൂട്ടി കാണുവാൻ സാധിക്കുമെങ്കിൽ നമ്മൾ അതിനെ ഒരു പിശകായിട്ടല്ല പകരം ഒരു എക്സപ്ഷൻ ആയി കാണുവാനാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് എക്സപ്ഷണൽ എന്ന വാക്കിനെപ്പറ്റി ചിന്തിക്കുക നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സാധാരണ സന്ദർഭങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട് കൂടാതെ യാദൃശ്ചികമായി ചില തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുന്ന അസാധാരണമായ സന്ദർഭങ്ങളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട് കൂടാതെ ഇത്തരം അസാധാരണമായ സന്ദർഭങ്ങളെ എങ്ങിനെ നേരിടണമെന്നുള്ള ഒരു പദ്ധതി തയ്യാറാക്കുക എന്നതാണ് നമ്മൾ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നത് ഇതിന് പറയുന്ന പേരാണ് എക്സപ്ഷൻ ഹാൻഡ്ലിംഗ് അതുകൊണ്ട് ചില കാര്യങ്ങൾ തെറ്റായി പോകുമ്പോൾ നമ്മൾ എങ്ങിനെയാണ് തിരുത്തൽ നടപടി എടുക്കുക എന്ന് എക്സപ്ഷൻ ഹാൻഡ്ലിംഗ് ചോദിച്ചേക്കാം ഏത് തരം പിശകാണ് എന്നതിനെ ആശ്രയിച്ചാണ് ഏത് തരം തിരുത്തൽ നടപടി എന്ന് തീരുമാനിക്കുന്നത് ഉദാഹരണത്തിന് നിലവിലില്ലാത്ത ഒരു ഫയലിനെ നമ്മൾ വായിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഫയലിന്റെ പേര് ടൈപ്പ് ചെയ്യുവാൻ നമ്മൾ ഉപയോക്താവിനോട് ആവശ്യപ്പെടാറുണ്ട് അതുകൊണ്ട് ഒരു സന്ദേശം പ്രദർശിപ്പിക്കുവാനും ഫയൽ നിലവിലില്ലാത്തതിനാൽ ഫയലിന്റെ പേര് വീണ്ടും ടൈപ്പ് ചെയ്യുവാനും നിങ്ങൾക്ക് ആവശ്യപ്പടാവുന്നതാണ് അതേസമയത്ത് ഒരു ലിസ്റ്റ് പരിധിക്ക് പുറത്ത് ഇൻഡക്സ് ചെയ്യപ്പെടുകയാണെങ്കിൽ സ്വാഭവികമായും ഒരു പിശക് നമ്മുടെ പ്രോഗ്രാമിലുണ്ടാവും എന്താണ് നമ്മുടെ പ്രാഗ്രാമിനെ തെറ്റായി കൊണ്ടുപോകുന്നത് എന്ന് ലക്ഷണങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ഈ ഇൻഡക്സിന്റെ വില നമുക്ക് പ്രദർശിപ്പിക്കാവുന്നതാണ് തെറ്റുകൾക്ക് സാധ്യതയുള്ള നമ്മുടെ പ്രോഗ്രാമിനെ തിരുത്തുന്നത് തന്നെയാണ് ചിലപ്പോൾ പിശക് കൈകാര്യം ചെയ്യൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനെ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാതെ പ്രോഗ്രാമിലുള്ള ഇത്തരം പിശകുകൾ പിടിച്ചെടുക്കുവാനുള്ള മാർഗ്ഗമാണ് നമുക്ക് ആവശ്യമുള്ളത് അതുകൊണ്ട് ഇന്റർപ്രിറ്റർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പിശക് സംഭവിക്കുകയും നമ്മൾ അത് കണ്ടെത്തുകയും നമുക്ക് ഇതുപോലെ പിടികൂടുവാൻ സാധിക്കുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ ഇടയ്ക്ക് വെച്ച് പ്രോഗ്രാം നിർത്തുകയും ചെയ്യും അതുകൊണ്ട് പ്രോഗ്രാം ഇടയ്ക്ക് വെച്ച് നിർത്താതെ തന്നെ പിശകുകൾ കണ്ടുപിടിക്കുവാനുള്ള ഒരു മാർഗ്ഗം നമുക്ക് ആവശ്യമുണ്ട് ധാരാളം വ്യത്യസ്തതരം പിശകുകളുണ്ട് അതിൽ ചിലത് നാം കണ്ടതാണ് എന്നാൽ ഇതിലുള്ള സൂക്ഷ്മത നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഉദാഹരണത്തിന് പൈത്തൺ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തെറ്റായി എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന പിശകിന് പറയുന്ന പേരാണ് സിന്റാക്സ് എറർ സിന്റാക്സ് എറർ ഇൻവാലിഡ് സിന്റാക്സ് syntax error invalid syntax എന്നാണ് പൈത്തൺ നൽകുന്ന സന്ദേശം ഉദാഹരണത്തിന് നമ്മൾ ഒരു ലിസ്റ്റ് സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് കരുതുക അബദ്ധവശാൽ കോമയ്ക്ക് പകരം സെമികോളൻ ഉപയോഗിച്ചു പോയി ഉടനെ തന്നെ പൈത്തൺ ആ സെമികോളനിലേക്ക് പോയിന്റ് ചെയ്യുകയും "this is a syntax error it is invalid python syntax" എന്ന് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു തീർച്ചായായും നമുക്ക് അസാധുവായ സിന്റാക്സ് ഉണ്ട് അത് അർത്ഥമാക്കുന്നത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നില്ലെന്നും നമുക്ക് പ്രത്യേകിച്ച് കൂടുതലൊന്നും ചെയ്യാനില്ല എന്നുമാണ് അതുകൊണ്ട് സാധുവായ പ്രോഗ്രാമിലുള്ള പിശകുകളിലാണ് നമുക്ക് യഥാർത്ഥത്തിൽ താൽപര്യമുള്ളത് പ്രോഗ്രാം സിന്റാക്സ് പ്രകാരം ശരിയാണ് അത് പൈത്തൺ ഇന്റർപ്രീറ്ററിന് എക്സിക്യൂട്ട് ചെയ്യുവാൻ സാധിക്കുന്ന ചിലതാണ് എന്നാൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചില പിശകുകൾ സംഭവിക്കുന്നു ഇത്തരം പിശകുകൾക്ക് പറയുന്ന പേരാണ് റൺ ടൈം എറേഴ്സ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പിശകുകളാണിത് മാത്രമല്ല ഇത്തരം പിശകുകൾ ഇവിടെ നാം വീണ്ടും കാണുകയും അവ ചില നിർണ്ണായക വിവരങ്ങൾ തരികയും ചെയ്യുന്നു ഉദാഹരണത്തിന് വില നിർവ്വചിക്കാത്ത ഒരു പേര് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പൈത്തൺ നമുക്കൊരു സന്ദേശം തരും ആ പേര് നിർവ്വചിച്ചിട്ടില്ല എന്നും ഇതൊരു "name error" എന്ന കോഡ് ലൈനിന്റെ തുടക്കത്തിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും ഏത് തരം പിശകാണ് എന്ന് പൈത്തൺ നമ്മളോട് പറയുന്ന മാർഗ്ഗം ഇതാണ് അതുപോലെ പൂജ്യം കൊണ്ട് ഹരിക്കുന്ന തരത്തിൽ അവസാനിക്കുന്ന ഒരു ഗണിത പദപ്രയോഗം നമുക്കുണ്ടെങ്കിൽ സീറോ ഡിവിഷൻ എറർ എന്ന് ലഭിക്കും കൂടാതെ നിങ്ങൾ ഒരു ലിസ്റ്റിനെ അതിന്റെ പരിധിക്ക് പുറത്ത് നിന്ന് ഇൻഡക്സ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ലഭിക്കന്ന പിശകാണ് ഇൻഡക്സ് എറർ നമുക്ക് ഈ പിശകുകൾ മുഴുവൻ പരിശോധിക്കാം നമ്മൾ മനസ്സിലാക്കി എന്ന് ഉറപ്പ് വരുത്തുക y x 5 ആണെന്ന് നാം പറയുന്നു എന്ന് സങ്കല്പിക്കുക മാത്രമല്ല x ന് വേണ്ടി നമ്മൾ ഒന്നും നിർവ്വചിച്ചിട്ടില്ല അതിനാൽ അത് നമുക്കൊരു നെയിം എറർ ലഭിക്കുന്നു കൂടാതെ "name x is not defined" എന്ന് വ്യക്തമായി പറയുന്നു നേരേ മറിച്ച് 5 0 എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ഡിവിഷൻ എറർ ആയിരിക്കും "division by 0" എന്ന സന്ദേശത്തോടൊപ്പം കൂടാതെ 1 2 എന്നിവയുള്ള ഒരു ലിസ്റ്റ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ മൂന്നാമത്തെ സ്ഥാനത്തിന് ചോദിക്കുകയാണെങ്കിൽ 3 എന്ന സ്ഥാനം ലിസ്റ്റിലില്ല എന്നായിരിക്കും അത് നൽകുന്ന സന്ദേശം അതുകൊണ്ട് ഇതൊരു ഇൻഡക്സ് എറർ ആണ് അതായത് പൈത്തൺ ഇന്റർപ്രിറ്റർ നമുക്ക് തരുന്ന വിവിധതരം പിശകുകളിൽ മൂന്ന് ഉദാഹരണങ്ങൾ ഇവയാണ് കൂടാതെ എററിന്റെ പേര് തുടക്കത്തിലുണ്ട് ഇൻഡക്സ് എറർ നെയിം എറർ സീറോ ഡിവിഷൻ എറർ ഇത് കൂടാതെ നിർണ്ണായകമായ വിവരണങ്ങൾ അതിന് ശേഷം കാണാവുന്നതാണ് നമുക്ക് ആദ്യം വളരെ പെട്ടെന്ന് ചില പദാവലികളുമായി ധാരണയാവാം അതുകൊണ്ട് സാധാരണയായി ഒരു പിശകിന് മുന്നറിയിപ്പ് നൽകുന്നതിനെയാണ് റേസിംഗ് ഏൻ എക്സപ്ഷൻ എന്നു പറയുന്നത് അതുകൊണ്ട് പൈത്തൺ ഇന്റർപ്രിറ്റർ ഒരു പിശക് കണ്ടെത്തുമ്പോൾ അത് നമുക്ക് പ്രസ്തുത പിശകിനെപ്പറ്റിയുള്ള വിവരം നൽകുന്നു കൂടാതെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ രണ്ട് ഭാഗങ്ങളായാണ് അത് വരുന്നത് ആദ്യത്തേത് ഏത് തരം പിശകാണ് അതെന്നാണ് അതായത് നെയിം എറർ അല്ലെങ്കിൽ ഇൻഡക്സ് എറർ അല്ലെങ്കിൽ സീറോ ഡിവിഷൻ എറർ തുടങ്ങിയവ രണ്ടാമത്തേത് എവിടെയാണ് പിശക് സംഭവിച്ചത് എന്ന് നമുക്ക് അറിയുവാനുള്ള ചില നിർണ്ണയ വിവരങ്ങളാണ് അതുകൊണ്ട് ചില വിലകൾ നിർവ്വചിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രം നമ്മളോട് പറഞ്ഞാൽ പോരാ x എന്ന പേര് നിർവ്വചിക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രത്യേകിച്ച് നമ്മളോട് പറയുന്നു പിശക് ഇപ്പോൾ എവിടേയ്ക്കാണ് എന്നതിന്റെ ഒരു സൂചന ഇത് നമുക്ക് തരുന്നു പൈത്തൺ അതുപോലെയുള്ള ഒരു പിശകിനെപ്പറ്റി സൂചന നൽകിയാൽ നമുക്ക് എന്താണ് ചെയ്യുവാനുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ പ്രാഗ്രാമിൽ വെച്ച് തന്നെ അതിനെ കൈകാര്യം ചെയ്യുക എന്നതാണ് അതുകൊണ്ട് പിശക് എന്താണെന്ന് നമ്മൾ മുൻകൂട്ടി കാണുകയും അതിന്റെ തരത്തിനെ ആശ്രയിച്ച് പരിഹര നടപടികളെടുക്കുകയും ചെയ്യണം അതുകൊണ്ട് എല്ലാത്തരം പിശകുകൾക്കും ഒരേ തരം നടപടികളെടുക്കുവാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് ഇതൊരു നെയിം എറർ ആണോ അല്ലെങ്കിൽ ഒരു ഇൻഡക്സ് എറർ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ എന്ന് അറിയുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്നത് മാത്രമല്ല പിശക് എന്താണ് എന്നതിനെ ആശ്രയിച്ച് ആ തരം പിശകിന് വേണ്ടി അനുയോജ്യമായ നടപടി നമ്മൾ എടുക്കണം കൂടാതെ നമുക്ക് വ്യക്തമായി കൈകാര്യം ചെയ്യുവാൻ സാധിക്കാത്ത പിശകോ എക്സപ്ഷനോ ലഭിക്കുകയാണെങ്കിൽ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ഇടയ്ക്ക് വെച്ച് നിർത്തുകയല്ലാതെ പൈത്തൺ ഇന്റർപ്രിറ്ററിന് മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ല അതായത് ഒരു എക്സപ്ഷനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ ഇടയ്ക്ക് വെച്ച് അവസാനിക്കും നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ തരം ബ്ലോക്ക് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് ഈ ബ്ലോക്കിന് പറയുന്ന പേരാണ് ട്രൈ ബ്ലോക്ക് അതുകൊണ്ട് നമുക്കൊരു കോഡ് ഉണ്ടെങ്കിൽ ട്രൈ ബ്ലോക്കിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കോഡിൽ ചില പിശകുകൾക്ക് സാധ്യതയുണ്ട് എന്ന് നമ്മൾ മുൻകൂട്ടി കാണണം ചിലത് തെറ്റായി സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മുൻകൂട്ടി കാണുന്ന കോഡിന്റെ സാധാരണ ബ്ലോക്കാണിത് മാത്രമല്ല പിശകുകളുടെ തരത്തിനെ ആശ്രയിച്ചുകൊണ്ട് തെറ്റായി പോകുവാൻ സാധ്യതയുള്ള മുഴുവൻ കാര്യങ്ങളെയും നേരിടുവാനാവശ്യമായ മുൻകരുതലുകൾ നമ്മളെടുക്കുന്നു ഇത് നൽകുന്നത് except എന്ന സ്റ്റേറ്റ്മെന്റാണ് അത് ഇങ്ങിനെയാണ് പറയുന്നത് എന്തെങ്കിലും തെറ്റായി പോകുകയാണെങ്കിൽ ഒന്നിന് പുറകെ ഒന്നായി അനുയോജ്യമായ except ലേക്ക് പോകുക ഒരു ഇൻഡക്സ് എറർ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആദ്യത്തേത് ചോദിക്കുന്നു അതുകൊണ്ട് ഒരു ഇൻഡക്സ് എറർ ഉണ്ടാവുകയാണെങ്കിൽ പ്രവർത്തിക്കുന്ന കോഡ് ഇതാണ് നേരേമറിച്ച് എനിക്ക് ലഭിക്കുന്നത് ഒരു നെയിം എറർ അല്ലെങ്കിൽ ഒരു കീ എറർ അല്ലെങ്കിൽ രണ്ടുമാണെങ്കിലും ഞാൻ ചെയ്യുന്നത് ഒരേ കാര്യം ആയിരിക്കും അതാനാൽ ഇതാണ് അടുത്ത except ബ്ലോക്ക് അതുകൊണ്ട് നിങ്ങൾ മുൻകൂട്ടി കാണുന്ന തരം പിശകുകൾ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് എത്ര except ബ്ലോക്കുകൾ വേണമെങ്കിലും ആവാം എന്നാൽ എല്ലാതരം പിശകുകളെയും കൈകാര്യം ചെയ്യണമെന്ന് നിർബന്ധമില്ല തീർച്ചയായും നിങ്ങൾക്ക് മുൻകൂട്ടി കാണുവാൻ സാധിക്കാത്ത മുഴുവൻ പിശകുകളെയും കൈകാര്യം ചെയ്യാൻ വേണമെങ്കിൽ പൊതുവായി ചിലത് ചെയ്യാം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ശുദ്ധമായ ഒരു except ബ്ലോക്ക് ആവാം അതുകൊണ്ട് ഏത് തരം പിശകാണ് എന്ന് നിങ്ങൾ സൂചിപ്പിക്കാത്ത ഒരു തരം ശൂന്യമായ except ബ്ലോക്ക് ഡിഫാൾട്ടായി മറ്റെല്ലാതരം എക്സപ്ഷനെയും പിടിച്ചിരിക്കും ക്രമപ്രകാരമായിരിക്കും അത് സംഭവിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർക്കുക ഉദാഹരണത്തിന് എനിക്ക് മൂന്ന് പിശകുകൾ അതായത് ഒരു ഇൻഡക്സ് എറർ ഒരു നെയിം എറർ ഒരു സീറോ ഡിവിഷൻ എറർ എന്നിവ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ആദ്യം അത് കാണ്ടുപിടിക്കുന്നത് ഒരു ഇൻഡക്സ് എറർ ആയതിനാൽ ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യും നെയിം എറർ കോഡ് എക്സിക്യൂട്ട് ചെയ്യില്ല നേരേമറിച്ച് ഉദാഹരണത്തിന് എനിക്ക് ഒരു നെയിം എററും ഒരു സീറോ ഡിവിഷൻ എററും മാത്രമാണുള്ളതെങ്കിൽ നെയിം എറർ ആദ്യം വരുന്നതുകൊണ്ടും ഇൻഡക്സ് എറർ കണ്ടുപിടിക്കാനാവാത്തത് കൊണ്ടും നെയിം എററിൽ എത്തി അതിലെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും സീറോ ഡിവിഷൻ എറർ വ്യക്തമായി കൈകാര്യം ചെയ്യപ്പെടുന്നില്ല പ്രോഗ്രാം ഇടയ്ക്ക് വെച്ച് അവസാനിക്കുന്നില്ല എന്നാൽ സീറോ ഡിവിഷൻ എററിന് വേണ്ടി എക്സിക്യൂട്ട് ചെയ്യാൻ കോഡില്ല ഏത് എക്സപ്ഷനെയാണ് ഒരു പിശക് യോജിക്കുന്നതെന്ന് ഇതിലെ ഓരോന്നും ശ്രമിക്കുകയും അല്ലാത്തവയെ ഒഴിവാക്കുകയും ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കുക അതുകൊണ്ട് അവസാനമായി ഈ ഒരു പ്രത്യേക ഉദാഹരണത്തിൽ എനിക്ക് ഒരു സീറോ ഡിവിഷൻ എറർ മാത്രമാണ് ഉള്ളതെങ്കിൽ ഇതൊരു ഇൻഡക്സ് എറർ അല്ലാത്തത് കൊണ്ടും നെയിം എറർ അല്ലാത്തത് കൊണ്ടും അത് ഇതിൽകൂടി കടന്നു പോകുവാൻ ശ്രമിക്കുകയും ഇത് ഒരു തരം പിശകല്ല എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു ഇതൊരു തരം പിശകല്ല മാത്രമല്ല അത് ഡിഫാൾട്ട് എക്സപ്ഷൻ സ്റ്റേറ്റ്മെൻറിലേക്ക് പോയി മറ്റെല്ലാ എക്സപ്ഷനുകളെയും പിടിക്കുന്നു അവസാനമായി പൈത്തൺ else എന്ന് പേരുള്ള വളരെ ഉപകാരപ്രദമായ ഒരു ഉപവാക്യം വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു for നോട് അല്ലെങ്കിൽ ഒരു while നോട് ബന്ധപ്പെട്ടിരിക്കുന്ന else ന്റെ അതേ സ്വഭാവമാണ് ഇവിടെയുള്ള else നുമുള്ളത് സാധാരണഗതിയിൽ അവസാനിക്കാത്ത ഒരു for അല്ലെങ്കിൽ ഒരു while പിന്നീട് else എക്സിക്യൂട്ട് ചെയ്യുന്നു ഒരു break ഉണ്ടെങ്കിൽ else ഒഴിവാക്കപ്പെടുന്നു അതേപോലെ try സാധാരണ ഗതിയിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പിശകുകളൊന്നും കണ്ടുപിടിക്കുവാനില്ലെങ്കിൽ else എക്സിക്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ തീർച്ചയായിട്ടും else ഒഴിവാക്കപ്പെടും അതുകൊണ്ട് try ബ്ലോക്ക് പിശകുകളില്ലാതെ സാധാരണരീതിയിൽ അവസാനിക്കുകയാണെങ്കിൽ ഒരു else ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും ഇതാണ് എങ്ങിനെയാണ് എക്സപ്ഷനുകളെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിന്റെ മൊത്തത്തിലുള്ള ഒരു ഘടന നമുക്കാവശ്യമുള്ള കോഡിനെ നമ്മൾ ഒരു try ബ്ലോക്കിനകത്ത് ഉൾപ്പെടുത്തുന്നു അതിന് ശേഷം നമുക്ക് വിവിധ തരം എക്സപ്ഷനുകളെ പിടിക്കുന്ന except ബ്ലോക്കുകളുടെ ഒരു ശ്രേണി ഉണ്ടായിരിക്കും ഒരു ശ്രേണി ഒരു എക്സപ്ഷനുകളുടെ ടുപ്പിളിനകത്ത് ഉൾപ്പെടുത്തി നമുക്ക് ഒന്നിൽ കൂടുതൽ എക്സപ്ഷനുകളെ പിടിക്കാൻ സാധിക്കും കൈകാര്യം ചെയ്യപ്പെടാത്ത മറ്റെല്ലാ എക്സപ്ഷനുകളെയും പിടിക്കുവാൻ പ്രത്യേകിച്ച് ഒരു പേരുമായും ബന്ധമില്ലാത്ത ഒരു ഡിഫാൾട്ട് എക്സപ്ഷൻ നമുക്ക് ആവാം അവസാനമായി try സാധാരണരീതിയിൽ അവസാനിക്കുകയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു else നമുക്ക് ആവാം ഇനി നമ്മൾ സാധാരണ എക്സപ്ഷൻ ഹാൻഡ്ലിംഗ് ഉപയോഗിച്ച് നമുക്ക് മുൻകൂട്ടി കാണാത്ത പിശകുകളെ കൈകാര്യം ചെയ്യുന്നു നമ്മുടെ പ്രോഗ്രാമിംഗിന്റെ ശൈലി മാറ്റുവാൻ നമുക്ക് യഥാർത്തിൽ അതുപയോഗിക്കാം അതുകൊണ്ട് നമുക്ക് ഒരു മാതൃകാ ഉദാഹരണം പരിശോധിക്കാം പൈത്തണിൽ നമുക്ക് ഡിക്ഷ്ണറികൾ ഉപയോഗിക്കാമെന്ന് നമ്മൾ അടുത്തകാലത്ത് കാണ്ടു അതുകൊണ്ട് ഡിക്ഷ്ണറികൾ വിലകൾ കീകളുമായി ബന്ധപ്പെടുത്തുന്നു ഇവിടെ നമുക്ക് രണ്ട് കീകളുണ്ട് ധവാനും കോഹ്ലിയും കൂടാതെ പേരുകളായ ഓരോ കീക്കും നമുക്ക് സ്കോറുകളുടെ ഒരു ലിസ്റ്റുണ്ട് അതുകൊണ്ട് കീകൾ സ്ട്രിങ്ങുകളും വിലകൾ സംഖ്യകളുടെ ലിസ്റ്റുമായിട്ടുള്ള ഒരു ഡിക്ഷ്ണറിയാണ് ഈ scores ഇതിനോട് നമുക്ക് ഒരു സ്കോർ കൂട്ടണമെന്ന് കരുതുക ഒരു പ്രത്യേക ബാറ്റ്സ്മാനായ b യുമായി score ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ബാറ്റ്സ്മാൻ b യ്ക് s എന്ന ഒരു score ഉണ്ട് മാത്രമല്ല ഈ ഡിക്ഷ്ണറി നമുക്ക് പുതുക്കണം രണ്ട് സാഹചര്യങ്ങളാണ് നിലവിലുള്ളത് ഒന്നാമത്തേത് നമുക്ക് നിലവിൽ b യ്ക് ഡിക്ഷ്ണറിയിൽ ഒരു എന്ട്രിയുണ്ട് ഈ അവസ്ഥയിൽ നിലവിലുള്ള സ്കോറുകളുടെ ലിസ്റ്റായ b യിലേക്ക് നമുക്ക് s നെ കൂട്ടിച്ചേർക്കണം രണ്ടാമത്തെ സാഹചര്യമെന്താണെന്നു വെച്ചാൽ ഇത് ഒരു പുതിയ ബാറ്റ്സ്മാനാണ് ഇവിടെ b യ്ക്ക് ഒരു കീ ഇല്ല ഈ അവസ്ഥയിൽ s ഉൾപ്പെടുന്ന ലിസ്റ്റിന് തുല്യമായി സ്കോറുകളുടെ b സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് ഒരു കീ സൃഷ്ടിക്കേണ്ടതുണ്ട് നമുക്ക് പകരമായുള്ള രണ്ട് പ്രവർത്തന രീതികളുണ്ട് നിലവിലില്ലാത്ത ഒരു കീയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് ഒരു പിശകാണ് എന്നാൽ നിലവിൽ ഒരു കീ ഉണ്ടെങ്കിൽ s നെ പുനസ്ഥാപിച്ചുകൊണ്ട് അത് നമുക്ക് നഷ്ടപ്പെടാതെ നോക്കണം അതുകൊണ്ട് നമ്മൾ അതിനെ കൂട്ടിച്ചേർക്കുന്നു അതുകൊണ്ട് ഈ രണ്ട് രീതികളും നമ്മൾ വേർതിരിച്ചറിയണം നമ്മൾ ഇതിനകം മനസ്സിലാക്കിയത് എന്താണോ അത് ഉപയോഗിക്കുന്നതാണ് ഇത് ചെയ്യുവാനുള്ള ഒരു ശരിയായ മാർഗ്ഗം b എന്ന വില സ്കോറിൽ ഒരു കീ ആയി നിലവിലുണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള നിർദ്ദേശം ഉപയോഗിക്കുക അതുകൊണ്ട് scores keys b സ്കോറിലുണ്ടെങ്കിൽ b ഒരു കീ ആയി നിലവിലുണ്ടെങ്കിൽ നമ്മൾ സ്കോറിൽ കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ നമ്മൾ പുതിയ ഒരു എൻട്രി സൃഷ്ടിക്കുക അതുകൊണ്ട് നമുക്കിപ്പോൾ തീർച്ചയായും എക്സപ്ഷൻ ഹാൻഡ്ലിംഗ് ഉപയോഗിച്ച് താഴെ പറയുന്ന പ്രകാരം നമുക്കിത് ചെയ്യാം നമ്മൾ അതിനെ കൂട്ടിച്ചേർക്കുവാൻ നമ്മൾ ശ്രമിച്ചു ബാറ്റ്സ്മാൻ b ഒരു കീ ആയി സ്കോർസ് ഡിക്ഷ്ണറിയിൽ നിലവിലുണ്ടെങ്കിൽ scores append എന്ന് നമ്മൾ ശ്രമിച്ചു b അവിടെയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇത് ഒരു അസാധുവായ കീ ആണ് അതായത് കീ എറർ എന്നറിയപ്പെടുന്ന ഒരു പിശകാണെന്ന സൂചന പൈത്തൺ നൽകും അതുകൊണ്ട് ഞാൻ scores append എന്ന് ശ്രമിച്ചാൽ s ന് തുല്യമായ scores എന്ന എൻട്രി സൃഷ്ടിക്കപ്പെടുമ്പോൾ കീ എറർ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ except സ്റ്റേറ്റ്മെന്റിലേക്ക് തിരിച്ചയക്കാം അതുകൊണ്ട് ഇതൊരു വ്യത്യസ്തമായ ഒരു ശൈലി മാത്രമാണ് ഒന്ന് മറ്റൊന്നിനേക്കാൾ മെച്ചമാണെന്ന് അത് പ്രസ്താവിക്കുന്നില്ല മറിച്ച് ഒരിക്കൽ എക്സപ്ഷൻ ഹാൻഡ്ലിംഗ് നമ്മുടെ നിയന്ത്രണത്തിലായാൽ നമുക്ക് കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യുവാൻ സാധിക്കുന്നതാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നു നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് എന്നും ചിലപ്പോൾ കൂടുതൽ വ്യക്തമായി ഇതൊരു ശൈലിയുടെ വിഷയമാണെന്നും അത് നിങ്ങൾക്ക് തെറ്റാണെന്നോ ശരിയാണെന്നോ തോന്നാം എന്നാൽ രണ്ടും സാധുവായ പൈത്തൺ കോഡാണ് നമുക്ക് ഒരു പിശക് വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് പരിശോധിക്കാം അതായത് നമുക്ക് എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങണമെന്ന് കരുതുക കൂടാതെ y z എന്നീ പരാമീറ്ററുകളുള്ള ഫംഗ്ഷൻ f നെ നമുക്ക് വിളിക്കണം ഇത് മുമ്പോട്ട് പോകുകയും ഫംഗ്ഷൻ നിർവ്വചനത്തെ തിരയുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ വിളി ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പരിണമിക്കുന്നു കൂടാതെ ഈ ഫംഗ്ഷൻ നിർവ്വചനം അതിനകത്തുള്ള മറ്റൊരു ഫംഗ്ഷനെ call g കൂടി വിളിക്കുവാൻ സാധിക്കും ഇത് g ഉള്ള അതേ വരിയിൽ ആയിരിക്കുണം മാത്രമല്ല ഇത് മാറി മാറി മറ്റൊരു ഫംങ്കംഷൻ h നെ വിളിക്കുന്നു അവസാനം നമ്മൾ h ലെത്തുമ്പോൾ ഓരുപക്ഷേ ഇവിടെയായിരിക്കാം പ്രശ്നം സംഭവിക്കുന്നത് ഒരുപക്ഷെ h നുള്ളിൽ എവിടെയോ ഒരു ഇൻഡക്സ് എറർ ഉണ്ട് കൂടാതെ ഉദാഹരണത്തിന് നമ്മൾ ഈ ലിസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് h ൽ ഒരു ട്രൈ ബ്ലോക്കിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ആ പിശക് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നമ്മൾ പറഞ്ഞുവന്നത് എന്തെന്നാൽ ഒരു പിശക് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പ്രോഗ്രാം ഇടയ്ക്ക് വെച്ച് അവസാനിക്കും എന്നാൽ പ്രോഗ്രാം നേരിട്ട് ഇടയ്ക്ക് വെച്ച് അവസാനിക്കുന്നില്ല ഈ ഫംഗ്ഷൻ ഇടയ്ക്ക് വെച്ച് അവസാനിക്കും മാത്രമല്ല അത് പിശകിനെ എന്താണോ അതിനെ വിളിച്ചത് അവിടേയ്ക്ക് തിരിച്ച് അയക്കും അതുകൊണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ g യിൽ h നെ വിളിച്ച സ്ഥലത്തേക്ക് ഈ ഇൻഡക്സ് എറർ തിരിച്ചുപോകും ഏത് ഫംഗ്ഷനിലാണോ നമ്മൾ ഇപ്പോളുള്ളത് അവിടെ വെച്ച് തന്നെ നമ്മൾ പിശകിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ എറർ തിരിച്ചുപോകുന്നു ഈ ഫംഗ്ഷൻ ഇടയ്ക്ക് വെച്ച് അവസാനിക്കുന്നു മാത്രമല്ല അവസാനം അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു കൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ പൈത്തൺ കോഡിന്റെ ഒന്നാമത്തെ ഫംഗ്ഷനിലെത്തുമ്പോൾ നമ്മൾ അതിനെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും മൊത്തത്തിലുള്ള പൈത്തൺ പ്രോഗ്രാം ഇടയ്ക്ക് വെച്ച് അവസാനിക്കുന്നു അതുകൊണ്ട് എല്ലായ്പ്പോഴും അങ്ങിനെയല്ലെങ്കിൽ പോലും ഓരോ തവണയും നമ്മൾ ആദ്യം നമ്മൾ കൈകാര്യം ചെയ്യപ്പടാത്ത ഒരു പിശക് കണ്ടുപിടിക്കുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് അവസാനിക്കുകയും അതിന്റെ നിയന്ത്രണം എവിടെ നിന്നാണോ അതിനെ വിളിച്ചത് അവിടേയ്ക്ക് വെറുതെ തിരിച്ചുപോകുന്നു മാത്രമല്ല ശ്രേണീക്രമത്തിലുള്ള വിളികൾക്ക് കുറുകെ ഏത് സ്ഥാനത്തു വെച്ചും നമുക്കതിനെ പിടിക്കാം അതുകൊണ്ട് ഒരു പിശക് കൈകാര്യം ചെയ്ത സ്ഥാനത്ത് വെച്ച് തന്നെ അതിനെ നമുക്ക് പിടിക്കണമെന്നില്ല നമ്മളെ വിളിക്കുന്ന സ്ഥാനത്തിന്റെ മുകളിൽ വെച്ച് നമുക്ക് അതിനെ പിടിക്കുവാൻ സാധിക്കും ചുരുക്കത്തിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പിശകുകളെ രമ്യമായി കൈകാര്യം ചെയ്യുവാൻ എക്സപ്ഷൻ ഹാൻഡ്ലിംഗ് നമ്മളെ അനുവദിക്കുന്നു അതുകൊണ്ട് ഒരു പിശകിന്റെ സൂചനയുണ്ടെങ്കിൽ അത് ഏത് തരം പിശകാണെന്നും കൂടാതെ ചില നിർണ്ണായക വിവരങ്ങളും പൈത്തൺ നമ്മളോട് പറയുന്നു try except ബ്ലോക്കുകൾ ഉപയോഗിച്ച് ഏത് തരം പിശകാണെന്ന് പരിശോധിക്കുവാനും അതിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ നടപടികളെടുക്കുവാനും നമുക്ക് സാധിക്കും എക്സപ്ഷൻ ഹാൻഡ്ലിംഗ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ പ്രോഗ്രാമിംഗ് ശൈലികൾ വികസിപ്പിക്കുവാൻ സാധിക്കുമെന്ന് ഡിക്ഷ്ണറിയിൽ ഒരു വില ഇടയിൽ ചേർക്കുന്ന ഉദാഹരണത്തിൽ കൂടി നാം കണ്ടു കൂടാതെ അവസാനമായി നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇൻപുട്ട് ഔട്ടപുട്ട് ഫയലുകൾ എന്നിവ കൈകാര്യം ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമ്മൾ പരാമർശിച്ച ഉദാഹരണങ്ങളിൽ ഒന്ന് "file is not found" അല്ലെങ്കിൽ "disk is full" പോലെയുള്ള എക്സപ്ഷനുകൾ വളരെ സാധാരണം ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നിവ പ്രോഗ്രാമിന് പുറത്തുള്ള കാര്യങ്ങളുമായി അന്തർലീനമായി വളരെയേറെ സമ്പർക്കം പുലർത്തുന്നു മാത്രമല്ല അതിനാൽ പിശകുകൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയതിനാൽ ഈ സംവിധാനം നമ്മുടെ തന്ത്രങ്ങളുടെ ശേഖരത്തിൽ കൂടെയുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും